ഹലോ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് അല്പം വ്യതിചലിച്ചു ഹാർഡ്വെയർ സുരക്ഷ എന്നതിനെക്കുറിച്ചു നോക്കാം ഹാർഡ്വെയർ സുരക്ഷ എന്നത് വരാനിരിക്കുന്ന ഒരു ഫീൽഡാണ് ഇത് യഥാർത്ഥത്തിൽ ചിപ്പുകൾ പ്രോസസ്സറുകൾ തുടങ്ങിയവയിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളുടെ അടിത്തറയായതിനാൽ ഈ ഹാർഡ്വെയറിന്റെ സുരക്ഷ യഥാർത്ഥത്തിൽ മുകളിലുള്ള എല്ലാ കാര്യങ്ങളെയും ബാധിച്ചേക്കാം ഉദാഹരണത്തിന് നിങ്ങളുടെ ഹാർഡ്വെയറിലെ ഒരു ന്യൂനത ഹാർഡ്വെയറിനെക്കുറിച്ചുള്ള എല്ലാം BIOS ഓപ്പറേറ്റിംഗ് സിസ്റ്റവും വിവിധ ആപ്ലിക്കേഷനുകളും പോലുള്ളവ മോഷ്ടിക്കാനോ compromise ചെയ്യാനോ കാരണമാകാം ഹാർഡ്വെയർ സുരക്ഷ തന്നെ വളരെ വിശാലമായ ഒരു ഫീൽഡാണ് ഈ വീഡിയോ ഫിസിക്കലി അൺക്ലോണബിൾ ഫംഗ്ഷൻ അല്ലെങ്കിൽ പിയുഎഫ് ൽ നിന്നും ആരംഭിക്കുന്നു അത്തരം ഒന്നിലധികം വീഡിയോകൾ ഉണ്ടാകും ഇത് അതിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ യഥാർത്ഥത്തിൽ "Physically Unclonable Functions and Applications" ഒരു ട്യൂട്ടോറിയൽ എന്ന് വിളിക്കുന്ന ഈ പേപ്പറിനെക്കുറിച്ച് ചർച്ച ചെയ്യും അതിനാൽ നിങ്ങൾക്ക് ഐഇഇഇ വെബ്സൈറ്റിൽ നിന്ന് ഈ ട്യൂട്ടോറിയൽ ഡൌൺലോഡ് ചെയ്യാൻ കഴിയും PUF കൾക്കുള്ള ഒരു പ്രധാന ആപ്ലിക്കേഷൻ authentication നാണ് എഡ്ജ് ഉപകരണത്തിന് authentication പ്രത്യേകിച്ച് ഐഒടിയ്ക്കായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് വളരെ പ്രധാനമാണ് കാരണം അടുത്ത കുറച്ച് വർഷങ്ങളിൽ വിന്യസിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആയിരക്കണക്കിന് ഐഒടികൾ ഉണ്ട് ഈ ഉപകരണങ്ങളെല്ലാം കുറഞ്ഞ ശക്തിയുള്ളവയാണ് അവയ്ക്ക് ചെറിയ memory foot prints ആണ് ഉള്ളത് കൂടാതെ പ്രോസസ്സ് കൺട്രോൾ പ്ലാന്റുകളിലെ സെൻസറുകളുമായും ആക്യുവേറ്ററുകളുമായും ഇവ ബന്ധിപ്പിച്ചിരിക്കുന്നു അത്തരം സ്വഭാവ സവിശേഷതകൾ ഉള്ളതിലെ ഒരു പ്രശ്നം ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതങ്ങൾ ഇതിൽ പ്രവർത്തിക്കില്ല എന്നതാണ് പ്രത്യേകിച്ചും പബ്ലിക് ക്രിപ്റ്റോഗ്രഫി അൽഗോരിതംസ് ഇതിൽ പ്രവർത്തിക്കില്ല പല പൊതു ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതങ്ങളും വളരെ സങ്കീർണ്ണമാണ് അതിനാൽ ഇത് നടപ്പിലാക്കുന്നതിന് ഗണ്യമായ അളവിൽ കമ്പ്യൂട്ട് പവറും മെമ്മറിയും ആവശ്യമാണ് അതിനാൽ ഈ ഉപകരണങ്ങളുടെ authentication യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമാണ് ഈ ഉപകരണങ്ങളുടെ authentication അവഗണിക്കാൻ കഴിയില്ല എന്നതാണ് രണ്ടാമത്തെ പ്രശ്നം ഈ എഡ്ജ് ഉപകരണങ്ങൾ പ്രോസസ്സ് കൺട്രോൾ സിസ്റ്റത്തിന്റെ വിവിധ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് വസ്തുത ഉദാഹരണമായി ഇത് ന്യൂക്ലിയർ തെർമൽ പ്ലാന്റുകളിലെ ചില ആക്യുവേറ്ററുകളുമായോ മോണിറ്ററിംഗ് ഘടകങ്ങളുമായോ ബന്ധിപ്പിക്കും അതിനാൽ ഈ ഉപകരണം യഥാർത്ഥത്തിൽ ശേഖരിക്കുന്ന ഡാറ്റാ പ്രോസസ്സിംഗ് മുഴുവൻ പ്ലാന്റിന്റെ പ്രവർത്തനത്തിനും കൃത്യതയ്ക്കും പ്രധാനമാണ് ഈ ഉപകരണങ്ങളുടെ മറ്റ് സവിശേഷതകൾ ഇവ 24X7 പ്രവർത്തിക്കണം ഇത് പൂർണമായും ആളില്ലാത്തതാണ് എന്നിവയാണ് അതിനാൽ ഈ ഉപകരണങ്ങളുടെ സുരക്ഷ വളരെ പ്രധാനമാണ് ഒരു രഹസ്യ കീ ഈ ഉപകരണത്തിൽ നിലവിലുള്ള ഫ്ലാഷ് അല്ലെങ്കിൽ ഒരു റോമിൽ സംഭരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ authentication നുള്ള സാധാരണ മാർഗം ഈ രഹസ്യ കീ പിന്നീട് lightweight സൈഫറുകളിൽ ഉപയോഗിക്കും light weight ആയ നിരവധി സൈഫറുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ സൈഫറുകളിലൊന്ന് യഥാർത്ഥത്തിൽ എൻക്രിപ്ഷനുകൾ ചെയ്യാൻ ഉപയോഗിക്കും സെർവറിനൊപ്പം ഒരു authentication പ്രോട്ടോക്കോൾ ഉണ്ടാകും കണക്റ്റുചെയ്തിരിക്കുന്ന എല്ലാ ഉപകരണങ്ങൾക്കും സെർവറിന് സമാനമായ സ്വകാര്യ കീകൾ ഉണ്ടായിരിക്കും ഹാൻഡ്ഷെയ്ക്ക് സമയത്തോ കണക്ഷൻ സമയത്തോ സെർവറും ഈ എഡ്ജ് ഉപകരണവും തമ്മിൽ ഇത് അയയ്ക്കും ഈ ഉപകരണത്തിന്റെ സാധുത authenticate ചെയ്യുന്നതിന് സ്വകാര്യ കീകൾ ഉപയോഗിക്കും സ്മാർട്ട് കാർഡുകൾ ക്രെഡിറ്റ് കാർഡുകൾ മുതലായ മറ്റ് ഉപകരണങ്ങളിലും സമാനമായ സ്വകാര്യ കീകൾ നിങ്ങൾക് കാണാം ഈ ഉപകരണങ്ങളിലെല്ലാം പ്രധാനമായും ഒരു വലിയ റാൻഡം നമ്പറാണ് സംഭരിച്ചിരിക്കുന്നത് അത് ഉപകരണം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു ഈ സമീപനത്തിന്റെ പ്രശ്നം ഉപകരണത്തിൽ സ്വകാര്യ കീ സംഭരിക്കുന്നതിനു EEPROM എന്നറിയപ്പെടുന്ന പ്രത്യേക മെമ്മറി ആവശ്യമാണ് ഇത് പ്രത്യേകിച്ച് നിർമ്മാതാവിന് ഓവർഹെഡ് ആണ് കൂടാതെ നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ സ്മാർട്ട് കാർഡുകളും മറ്റ് ലോ എൻഡ് ഉപകരണങ്ങളും എളുപ്പത്തിൽ ക്ലോൺ ചെയ്യാനോ പകർത്താനോ കഴിയും ഇതിനർത്ഥം എനിക്ക് യഥാർത്ഥത്തിൽ ഈ പ്രത്യേക ഹാർഡ്വെയർ ക്ലോൺ ചെയ്യാനും അതേ സ്വകാര്യ കീ ഉള്ള മറ്റൊരു ഹാർഡ്വെയർ സൃഷ്ടിക്കാനും കഴിയും എന്നതാണ് ഇതിനുള്ള പ്രശ്നം ഇപ്പോൾ എനിക്ക് രണ്ട് ഉപകരണങ്ങൾ ഉണ്ടായിരിക്കും രണ്ടും ഒരേ സെർവർ ഉപയോഗിച്ച് authenticate ചെയ്യാൻ കഴിയും കാരണം അവയിൽ ഒരേ സ്വകാര്യ കീ ഉണ്ടായിരിക്കും കാരണം പ്രധാനമായും ഇവ രണ്ടും പരസ്പരം ക്ലോണുകളാണ് ഉപകരണം authenticate ചെയ്യുതിനുള്ള ഒരു മാർഗമായി സ്വകാര്യ കീഗൾ ഉപയോഗിക്കുന്നതിന് പകരം ഒരു പുതിയ സാങ്കേതിക വിദ്യ അടുത്തിടെ ഉണ്ടായിട്ടുണ്ട് ഇതിനെ ഫിസിക്കലി അൺക്ലോണബിൾ ഫംഗ്ഷനുകൾ എന്ന് വിളിക്കുന്നു ഉപകരണങ്ങൾ authenticate ചെയ്യുന്നതിന് ഫിസിക്കലി അൺക്ലോണബിൾ ഫംഗ്ഷനുകൾ ഉപയോഗിക്കാം ഇതിന് സംഭരിച്ച കീകളോ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയോ ആവശ്യമില്ല മാത്രമല്ല ഇത് സംഭരിച്ച കീകൾ ഉപയോഗിച്ച് authentication ന്റെ പോരായ്മകളെ ലഘൂകരിക്കുകയും ചെയ്യുന്നു ഫിസിക്കലി അൺക്ലോണബിൾ ഫംഗ്ഷനുകൾ ഉപയോഗിച്ച് ഒരു ഉപകരണം യഥാർത്ഥത്തിൽ ക്ലോൺ ചെയ്യുന്നത് സാധ്യമല്ല അതിനാൽ നിങ്ങൾക്ക് മികച്ച സുരക്ഷ ലഭിക്കും ഫിസിക്കലി അൺക്ലോണബിൾ ഫംഗ്ഷനുകൾ എന്തൊക്കെയാണ് ഈ ഉപകരണത്തെ അദ്വിതീയമായി തിരിച്ചറിയാൻ കഴിയുന്ന ഡിജിറ്റൽ ഫിംഗർപ്രിന്റുകൾ പോലെയാണ് ഫിസിക്കലി അൺക്ലോണബിൾ ഫംഗ്ഷനുകൾ ഉപകരണത്തിന്റെ നിർമ്മാണ സമയത്ത് ഉണ്ടാകുന്ന നാനോ സ്കെയിൽ വ്യതിയാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ് അവ ഞങ്ങളുടെ പിന്നീടുള്ള സ്ലൈഡിൽ ഇത് കൂടുതൽ വിശദമായി കാണും അടിസ്ഥാനപരമായി PUF ഒരു ഫംഗ്ഷനാണ് അത് ചലഞ്ച് എന്നറിയപ്പെടുന്ന ഒരു ഇൻപുട്ട് എടുക്കുകയും റെസ്പോൺസ് എന്നറിയപ്പെടുന്ന ഒരു ഔട്ട്പുട്ട് നൽകുകയും ചെയ്യുന്നു മറ്റ് ഫംഗ്ഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി റെസ്പോൺസ് ഈ functionന് നൽകിയിരിക്കുന്ന ഇൻപുട്ട് ചലഞ്ചിനെ മാത്രമല്ല ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഉപകരണത്തെയും ആശ്രയിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് എനിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നും ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ 4 വ്യത്യസ്ത ഉപകരണങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് കരുതുക എല്ലാ ഫംഗ്ഷനുകൾക്കും ഞാൻ ഒരേ ഇൻപുട്ട് നൽകിയാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് 4 പ്രതികരണങ്ങളാണ് എല്ലാ റെസ്പോൺസുകളും വ്യത്യസ്തമായിരിക്കും ഇതിനർത്ഥം ഒരു പ്രത്യേക ചലഞ്ച് നൽകിയാൽ ആ പ്രത്യേക പ്രവർത്തനം ഏത് ഉപകരണം എക്സിക്യൂട്ട് ചെയ്തുവെന്ന് തിരിച്ചറിയാൻ പ്രതികരണം ഉപയോഗിക്കാം ഇത് sine function അല്ലെങ്കിൽ cos functionകളിൽ നിന്ന് ഇത് വളരെ വ്യത്യസ്തമാണ് C പ്രോഗ്രാം അല്ലെങ്കിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ ആയി സാധാരണ implement ചെയ്യുന്ന മറ്റേതെങ്കിലും ഫംഗ്ഷനുകളിൽ നിന്ന് ഇത് വളരെ വ്യത്യസ്തമാണെന്ന് ശ്രദ്ധിക്കുക ഒരു C പ്രോഗ്രാമിന് ഏത് ഉപകരണത്തിൽ നിന്നും നൽകുന്ന ഇൻപുട്ടിന് നിങ്ങൾക്ക് സമാന ഔട്ട്പുട്ട് ലഭിക്കും ഒരു PUF നെ സംബന്ധിച്ചു ഏത് ഉപകരണമാണ് PUF ഫംഗ്ഷൻ നിർവ്വഹിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി ഔട്ട്പുട്ട് വ്യത്യാസപ്പെടും PUF ന്റെ ഈ സവിശേഷത യഥാർത്ഥത്തിൽ ഒരു ഉപകരണത്തെ authenticate ചെയ്യാൻ ഉപയോഗിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ 10 മുതൽ 15 വർഷമായി നിരവധി PUF കൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ ചില PUF കൾ നല്ല PUFകൾ ചിലത് മോശം PUFകൾ എന്നിങ്ങനെ തിരിക്കുന്നതിന് PUFകളുടെ വിവിധ തരംതിരിക്കലും റാങ്കിംഗും ഉണ്ടായിട്ടുണ്ട് എനിക്ക് സമാനമായ രണ്ട് ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ രണ്ട് ഉപകരണങ്ങൾക്കും ഞാൻ ഒരേ ചലഞ്ച് നൽകുന്നുവെങ്കിൽ ഒരു PUF ഫംഗ്ഷൻ ചെയ്യേണ്ടത് അത് വ്യത്യസ്തമായ അല്ലെങ്കിൽ unique ആയ ഒരു പ്രതികരണം നൽകണം എന്നതാണ് കൂടാതെ ഈ പ്രതികരണം തമ്മിലുള്ള വ്യത്യാസം ഗണ്യമായിരിക്കണം ഇതിനെ ഇന്റർ ഡിഫറൻസ് എന്ന് വിളിക്കുന്നു കൂടാതെ PUFനുള്ള മറ്റൊരു ആവശ്യകത ഇൻട്രാ ഡിഫറൻസാണ് ഇതിനർത്ഥം ഞാൻ ഒരു പ്രത്യേക ഉപകരണം ഉപകരണം എ ഒരു പ്രത്യേക ചലഞ്ച് അയച്ച് അതിന്റെ പ്രതികരണം നേടുക കുറച്ച് സമയത്തിന് ശേഷം അതേ ഉപകരണത്തിലേക്ക് ചലഞ്ച് അയച്ച് പ്രതികരണം ശേഖരിക്കുക എന്നതാണ് ഒരു നല്ല PUF ൽ പ്രതീക്ഷിക്കുന്നത് ഒരു നിശ്ചിത കാലയളവിനുശേഷം ഒരേ ഉപകരണത്തിൽ നിന്ന് എടുത്ത ഈ 2 പ്രതികരണങ്ങളും കഴിയുന്നത്ര അടുത്ത് ആയിരിക്കണം അല്ലെങ്കിൽ സമാനമായിരിക്കണം എന്നതാണ് ഇത് ഒരു PUF ന്റെ വിശ്വാസ്യത എന്നറിയപ്പെടുന്ന ഒരു സവിശേഷതയാണ് അതിനാൽ ഇവ രണ്ടും പിയുഎഫിന്റെ ശക്തി കണക്കാക്കുന്നതിനുള്ള ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ ആണ് പിയുഎഫ് വിശ്വസനീയമായി മാത്രമല്ല വ്യത്യസ്ത വെല്ലുവിളികളെയും വ്യത്യസ്ത ഉപകരണങ്ങളെയും സംബന്ധിച്ച് സവിശേഷമായ പ്രതികരണങ്ങൾ നൽകണം ഒരു നല്ല PUFൽ പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത അത് പ്രവചനാതീതമായിരിക്കണം എന്നതാണ് ഇതിനർത്ഥം ഒരു ചലഞ്ച് നു നിലവിലെ പ്രതികരണം യഥാർത്ഥത്തിൽ നൽകാനുള്ള കഴിവിന് ഉപകരണത്തിന്റെ സാന്നിധ്യം ആവശ്യമാണ് ഉദാഹരണത്തിന് ഞാൻ ഒരു ചലഞ്ച് നൽകുകയും ഒരു പ്രതികരണം നേടുകയും ചെയ്താൽ ഈ പ്രതികരണം യഥാർത്ഥത്തിൽ ആ ഉപകരണത്തിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്നും മറ്റേതെങ്കിലും അൽഗോരിതം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാങ്കേതിക വിദ്യയിൽ നിന്നല്ല ഉണ്ടായതെന്നും എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയണം അതുല്യത വിശ്വാസ്യത പ്രവചനാതീതത എന്നി 3 കാര്യങ്ങൾ ഓരോ PUF നും ആവശ്യമാണ് ഇവയിൽ പലതും പരസ്പരം ഓർത്തോഗനാൽ ആണ് കൂടാതെ ഒരേ PUF ഈ 3 ഉം നേടുക എന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞ പ്രശ്നമാണ് ഈ 3 സവിശേഷതകളും നേടാൻ കഴിയുന്ന പിയുഎഫുകൾ ഡിസൈൻ ചെയ്യുന്നതിന് ധാരാളം ഗവേഷകർ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് മുമ്പ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 15 മുതൽ 20 വർഷത്തിനുള്ളിൽ ധാരാളം PUFകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് മിക്കപ്പോഴും ഈ കാലയളവിൽ ഉപയോഗിക്കുന്ന PUFകൾ intrinsic PUFകൾ എന്നറിയപ്പെടുന്നു ഇവ പൂർണ്ണമായും ഒരു ചിപ്പിനുള്ളിൽ implement ചെയ്യാൻ കഴിയുന്ന PUFകളാണ് നിങ്ങൾക്ക് ഒരു PUF ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മെഷർമെന്റ് സർക്യൂട്ട് യഥാർത്ഥത്തിൽ പ്രതികരണത്തെ അളക്കുന്നു കൂടാതെ ആ ഒറ്റ ചിപ്പിനുള്ളിൽ പോസ്റ്റ് പ്രോസസ്സിംഗും ഉണ്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക PUF കളും intrinsic PUFകളാണ് ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ രണ്ട് PUFകളെക്കുറിച്ചു നോക്കും ഈ ദിവസങ്ങളിൽ നമ്മൾ വിലയിരുത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഏറ്റവും സാധാരണമായ 2 PUFകൾ ആർബിറ്റർ PUF റിംഗ് ഓസിലേറ്റർ PUF എന്നിവയാണ് നമ്മൾ റിംഗ് ഓസിലേറ്റർ ഉപയോഗിച്ച് ആരംഭിക്കുന്നു റിംഗ് ഓസിലേറ്റർ ഒരു PUF ആയി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്കു നോക്കാം അടിസ്ഥാനപരമായി ഇതാണ് ഒരു റിംഗ് ഓസിലേറ്റർ ഇതിന് ഇവിടെ ഒരു AND ഗേറ്റും Enable ഉം ഉണ്ട് Enable 1 ആയി സജ്ജമാക്കുമ്പോൾ ഈ AND ഗേറ്റ് മറ്റ് സിഗ്നലിനെ കടന്നുപോവാൻ അനുവദിക്കും ഇവ കൂടാതെ ഇൻവെർട്ടറുകളുടെ എണ്ണം എപ്പോഴും ഒറ്റ ആണ് ഒടുവിൽ ഇതിന് ഔട്ട്പുട്ടിൽ നിന്ന് AND ഗേറ്റിലേക്ക് ഒരു ഫീഡ്ബാക്ക് ഉണ്ട് ഇപ്പോൾ Enable ബിറ്റ് 1 ആയി സജ്ജമാക്കിയിട്ടുണ്ടെന്നും മറ്റ് ഇൻപുട്ട് 0 ആണെന്നും അനുമാനിക്കാം അതിനാൽ ഇതിന്റെയും ഗേറ്റിന്റെയും ഔട്ട്പുട്ട് 0 ആകും അതിനാൽ ഇത് 1 0 വീണ്ടും 1 എന്നിങ്ങനെ മാറുന്നു തുടർന്ന് ഒരു ഫീഡ്ബാക്ക് ഉണ്ട് ഇപ്പോൾ AND ഗേറ്റിലേക്കുള്ള നിങ്ങളുടെ ഇൻപുട്ട് 0 ൽ നിന്ന് 1 ആയി മാറി ഇതിന്റെ ഫലമായി 1 ഇവിടെ 0 ഉം പിന്നീട് 1 ഉം 0 ഉം ആയി മാറുന്നു തുടർന്ന് ഔട്ട്പുട്ട് വീണ്ടും 0 ആയി മാറുന്നു ഇവിടെ തുടർച്ചയായി ഔട്ട്പുട്ട് 0 1 എന്നിങ്ങനെ മാറുന്നു ഇത് 1 0 എന്നിവയുടെ periodic ഔട്ട്പുട്ട് സൃഷ്ടിക്കുന്നു ഇപ്പോൾ ഔട്ട്പുട്ട് ഇതുപോലെയായിരിക്കും ഔട്ട്പുട്ടിന്റെ ആവൃത്തി ഒന്നിലധികം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ആദ്യത്തേത് ഇത് ഈ റിംഗ് ഓസിലേറ്ററിൽ ഉള്ള NOT ഗേറ്റുകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് കൂടുതൽ ഇൻവെർട്ടർ ഗേറ്റുകളുണ്ടെങ്കിൽ ഈ തരംഗരൂപത്തിന്റെ ആവൃത്തി കുറവായിരിക്കും കാരണം സിഗ്നൽ ഔട്ട്പുട്ടിലേക്ക് എത്തുന്നതിനു കൂടുതൽ സമയമെടുക്കും ഈ റിംഗ് ഓസിലേറ്റർ ഔട്ട്പുട്ടിന്റെ ആവൃത്തിയെ സ്വാധീനിക്കുന്ന മറ്റൊരു വശം ഓരോ ഘട്ടത്തിന്റെയും കാലതാമസമാണ് ഉദാഹരണത്തിന് നിലവിലുള്ള ഓരോ ഇൻവെർട്ടറിൻറെയും കാലതാമസം വളരെ ചെറുതാണെങ്കിൽ ഔട്ട്പുട്ടിൽ എത്താൻ സിഗ്നൽ സമയം മാത്രമേ എടുക്കുകയുള്ളു അതിന്റെ ഫലമായി നിങ്ങൾക്ക് ഉയർന്ന ആവൃത്തി ലഭിക്കും മറുവശത്ത് ഓരോ ഇൻവെർട്ടറിന്റെയും കാലതാമസം ദൈർഘ്യമേറിയതാണെങ്കിൽ റിംഗ് ഓസിലേറ്റർ ഔട്ട്പുട്ടിന്റെ ആവൃത്തി വളരെ ചെറുതായിരിക്കും റിംഗ് ഓസിലേറ്റർ PUF ന്റെ ആവൃത്തി നമുക്ക് ഇതുപോലെ എഴുതാം ഇത് 12nt ക്കു തുല്യമാണ് നിങ്ങൾ n റിംഗ് ഓസിലേറ്ററിലെ ഘട്ടങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ t ഓരോ ഘട്ടത്തിന്റെയും കാലതാമസം വർദ്ധിപ്പിക്കുമ്പോൾ റിംഗ് ഓസിലേറ്ററിന്റെ ഔട്ട്പുട്ടിന്റെ ആവൃത്തി കുറയുകയും തിരിച്ചും സംഭവിക്കാം റിംഗ് ഓസിലേറ്ററിലെ ഘട്ടങ്ങളുടെ എണ്ണം ആവൃത്തിയെ ബാധിക്കുന്നുവെന്ന് മനസിലാക്കാൻ എളുപ്പമാണ് ഓരോ ഇൻവെർട്ടറിന്റെയും കാലതാമസം യഥാർത്ഥത്തിൽ ഈ ഗേറ്റുകളുടെ ഫാബ്രിക്കേഷൻ പ്രക്രിയയെ ആശ്രയിച്ചിരിക്കുന്നു നമ്മിൽ പലർക്കും അറിയാവുന്ന ഒരു സാധാരണ MOS ഗേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന് ഒരു sourceഉം ഡ്രെയിനും ഗേറ്റും ഉണ്ട് ഗേറ്റിൽ ലഭ്യമായ വോൾട്ടേജിനെ ആശ്രയിച്ച് source നും ഡ്രെയിനിനുമിടയിൽ ഒരു ചാനൽ സ്ഥാപിച്ചിരിക്കുന്നു ഒരു സിഎംഒഎസ് ഇൻവെർട്ടർ ഇതുപോലെയാണ് കാണപ്പെടുന്നത് നിങ്ങൾക്ക് ഒരു എൻഎംഒഎസും പിഎംഒഎസ് ട്രാൻസിസ്റ്ററും ഉണ്ട് അവ ഈ രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ കാണുന്നത് ഗേറ്റിലെ ഇൻപുട്ട് 1 മുതൽ 0 വരെ പോകുമ്പോൾ ഔട്ട്പുട്ട് 0 മുതൽ 1 വരെ മാറുന്നു ഈ ട്രാൻസിസ്റ്ററുകളുടെയും ഗേറ്റുകളുടെയും ഫാബ്രിക്കേഷൻ അത് ഒന്നിലധികം വ്യത്യസ്ത മാർഗങ്ങളാകാം ഒരു CMOS ഇൻവെർട്ടർ മറ്റൊരു CMOS ഇൻവെർട്ടറിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഉപയോഗിക്കുന്ന സിലിക്കൺ വേഫറുകൾ കാരണമാകാം ഇത് സിലിക്കൺ വേഫറുകളൊന്നും കൃത്യമായി സമാനമാകില്ല ഇത് ഡോപ്പിംഗ് concentration അല്ലെങ്കിൽ ഓക്സൈഡ് കനം പോലുള്ള മറ്റ് ഘടകങ്ങൾ കാരണമാകാം അങ്ങനെ ഓരോ ട്രാൻസിസ്റ്ററും unique ആയിരിക്കും ഇതിന്റെ ഫലമായി നിർമ്മിക്കുന്ന ഓരോ ഗേറ്റിനും ത്രെഷോൾഡ് വോൾട്ടേജിൽ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാകും ഇതിനർത്ഥം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരേ പ്രക്രിയയിലൂടെ നിർമിച്ച 2 ട്രാൻസിസ്റ്ററുകൾ എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ട്രാൻസിസ്റ്ററുകളും ഒന്നിനുപുറകെ ഒന്നായി നിർമ്മിക്കപ്പെടുന്നുവെന്ന് കരുതുക ഇപ്പോഴും ഈ ട്രാൻസിസ്റ്ററുകൾക്കിടയിൽ ചെറിയ നാനോ സ്കെയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവാം ഇതിന്റെ ഫലമായി CMOS ഇൻവെർട്ടർ പോലുള്ള സർക്യൂട്ടിൽ ചേർക്കുമ്പോൾ ഈ ട്രാൻസിസ്റ്ററുകളുടെ പെരുമാറ്റം വളരെ ചെറിയ രീതിയിൽ വ്യത്യാസപ്പെടും റിങ് ഓസിലേറ്ററിലെ കാലതാമസം ഉണ്ടാക്കുന്ന ഈ നാമമാത്ര വ്യത്യാസത്തിനു കാരണം ഈ ടി ഭാഗമാണ് പ്രത്യേക ഉപകരണങ്ങളുടെ signature എക്സ്ട്രാക്റ്റു ചെയ്യുന്നതിന് PUF കൾ ഈ സവിശേഷത ഉപയോഗിക്കുന്നു ഒരു സാധാരണ റിംഗ് ഓസിലേറ്റർ PUF ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഭാഗത്ത് നമ്മൾ AND ഗേറ്റും ഒന്നിലധികം ഒറ്റ സംഖ്യ ഇൻവെർട്ടറുകളും അടങ്ങുന്ന റിംഗ് ഓസിലേറ്റർ നെക്കുറിച്ചു കണ്ടു ഒരു റിംഗ് ഓസിലേറ്റർ PUF നിർമ്മിക്കുന്നതിന് അത്തരം നിരവധി റിംഗ് ഓസിലേറ്ററുകളും 2 മൾട്ടിപ്ലക്സറുകളും ഉപയോഗിക്കണം ഈ പ്രത്യേക സ്ലൈഡിൽ നമ്മൾ N റിംഗ് ഓസിലേറ്ററുകൾ ഉപയോഗിച്ചു നമ്മൾക്ക് 2 മൾട്ടിപ്ലക്സറുകളും ഒരു കൌണ്ടറും 1 ബിറ്റ് response ഉം ഉണ്ട് ഓരോ പിയുഎഫിന്റെയും സവിശേഷതകളെ ആശ്രയിച്ച് response 1 അല്ലെങ്കിൽ 0 ആയിരിക്കും ഇതിനെക്കുറിച്ചും റിംഗ് ഓസിലേറ്റർ പിയുഎഫ് കൾ യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചും ഉള്ള വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇത് അടുത്ത വീഡിയോയിൽ നോക്കാം അടുത്ത ക്ലാസ്സിൽ ആർബിറ്റർ പി എഫ് നെക്കുറിച്ചും റിംഗ് ഓസിലേറ്റർ പി എഫിനെയും ആർബിറ്റർ പി എഫിനെയും താരതമ്യം ചെയ്യുകയും അവയുടെ സവിശേഷതകൾ എന്താണെന്നും ഓരോന്നും എവിടെ ഉപയോഗിക്കാമെന്നും നോക്കാം